സെൽ കൾച്ചർ ടെക്നോളജി യുടെ ലെക്ചർ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ലെക്ചറിൽ ഹിപ്പോകാമ്പൽ ടിഷ്യുവിന്റെ മെക്കാനിക്കൽ ഡിസോസിയേഷനെക്കുറിചും ഈ മുഴുവൻ മെക്കാനിക്കൽ ഡിസോസിയേഷൻ പ്രക്രിയയും യൂണിഫോം ആണെന്നുമാണ് സംസാരിച്ചത് ഞാൻ ഒരു ലളിതമായ ഉദാഹരണം എടുക്കുകയാണ് മെക്കാനിക്കൽ ഡിസോസിയേഷൻ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടിഷ്യുവിൽ നിന്നും ഒരൊറ്റ സെൽ സസ്പെൻഷനായി വിഘടിപ്പിക്കുന്നതിന് ഷിയർ ഉപയോഗിക്കുമ്പോൾ വായു കുമിളകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം അവ ടിഷ്യുവിനെ വലിയ രീതിയിൽ തകർക്കും അതിനാൽ നിങ്ങൾ ഇത് എപ്പോഴും വളരെ സൌമ്യമായി ചെയ്യണം ഇതിനായി മെക്കാനിക്കൽ ഡിസോസിയേഷനിൽ ഒരു തമ്പ് റൂൾ ഉണ്ട് ഇത് വളരെ സുഗമമായ പ്രക്രിയയാണ് അതിനാൽ നിങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം ഇതിനായി മാത്രമുള്ള മറ്റൊരു രീതി ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നില്ല പകരം ചില റഫറൻസ് സൈറ്റുകൾ നൽകാം ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഉണ്ട് അതിനാൽ നിങ്ങൾ എൻസൈമാറ്റിക് ഡിസോസിയേഷൻ ആവും പിന്തുടരുക എവിടെയാണ് എൻസൈമാറ്റിക് ഡിസോസിയേഷൻ വേണ്ടത് എന്നതിലേക്ക് പിന്നീട് വരാം എൻസൈമാറ്റിക് ഡിസോസിയേഷൻറെ അർത്ഥം എന്തെന്നാൽ ഉദാഹരണത്തിന് ഈ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൽ കൊളാജൻ ഉണ്ട് കൊളാജനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എങ്കിൽ ഞാൻ എന്താവും കൊളാജനെ തകർക്കാൻ ഉപയോഗിക്കുന്നത് ഇതിനായി കൊളാജനെ തകർക്കുന്ന ഒരു എൻസൈമിനെ ഞാൻ ഉപയോഗിക്കും അതായത് കൊളാജനേസ് എപ്പോഴൊക്കെ എൻസൈം എന്ന് അർത്ഥമാക്കുന്നു അപ്പോഴെല്ലാം ase എന്നു ചേർക്കണം ഏത് അളവിലാണ് ഉപയോഗിച്ചത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് വളരെ ശ്രദ്ധ വേണം പരിമിതമായ അളവിലാണ് ഞാൻ കൊളാജനേസ് എൻസൈം ഉപയോഗിച്ചത് അഥവാ എനിക്ക് മറ്റൊരു പ്രോട്ടീയസ് ഉപയോഗിച്ചുകൊണ്ട് കൊളാജന്റെ ബോണ്ടുകളെ തകർക്കാം പപ്പെയ്നും ഉപയോഗിക്കാം എന്താണ് പപ്പെയ്ൻ ഇത് പപ്പായയിൽ നിന്നും എടുത്ത ഒരു എൻസൈമാണ് നാമെല്ലാവരും ഇത് ഒരു പച്ചക്കറിയായും പഴമായും കഴിക്കാറുണ്ട് പക്ഷേ കാരിക്ക പപ്പായയായ ഈ പപ്പായയെ വയറുവേദനയോ അതുപോലെ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ കഴിക്കാം എന്ന് ചിലരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ ശരിക്കും പപ്പെയ്ൻ ആണ് പ്രവർത്തിക്കുന്നത് ഇത് നിങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിൽ വളരെ പ്രധാനമാണ് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ ഉദാഹരണത്തിന് ഇതാണ് ടിഷ്യു ചുവന്ന ഡോട്ടുകളായി കാണുന്ന ഇവയാണ് സെല്ലുലാർ മൂലകങ്ങൾ ഇനി എന്താണ് ചെയ്യുന്നതെന്നാൽ പാപ്പെയ്ൻ തന്മാത്രയെ ഈ മേഖലകളിലേക്ക് നുഴഞ്ഞുകയറുന്ന ഒരു ധാന്യമായി നമുക്ക് പ്രതിനിധീകരിക്കാം പിന്നെ ഇത് ചെയ്യുന്ന ജോലി കോശങ്ങൾക്കിടയിലുള്ള അഡ്ഹിറിങ് ശക്തികളെ ദുർബലപ്പെടുത്തുകയാണ് ഇതാണ് ഇവ ട്രീറ്റ്മെൻറ്നെ പിന്തുടർന്നു വരുന്ന ഈ പ്രക്രിയക്കായി ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത് മെക്കാനിക്കൽ ഷിയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിസോസിയേഷൻലും ഇതു തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് സിംഗിൾ സെൽ സസ്പെൻഷൻ എന്നാൽ ഇവിടെ സിംഗിൾ സെൽ സസ്പെൻഷൻ 2 പ്രക്രിയയിലൂടെ പോകും നിങ്ങൾ ആദ്യം പപ്പെയ്ൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രക്രിയ ചെയ്തു തുടർന്ന് മെക്കാനിക്കൽ ഡിസോസിയേഷനും എന്നാൽ അമ്മ എലിയിൽ നിന്നും ഹിപ്പോകാമ്പസ് വേർതിരിച്ചെടുക്കേണ്ട ഫീറ്റൽ ടിഷ്യുവിനെ കുറിച്ച് പറഞ്ഞാൽ ഫീറ്റസിനായി നിങ്ങൾ ആ കാഠിന്യത്തിലൂടെ കടന്നുപോകേണ്ട ആവശ്യമില്ല ഇതിനായി മെക്കാനിക്കൽ ഡിസോസിയേഷൻ മതിയാകും അതിനാൽ മെക്കാനിക്കൽ ഡിസോസിയേഷൻ കഴിഞ്ഞാൽ എന്താവും നിങ്ങൾക്ക് കിട്ടുക ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ട്യൂബിൽ കിട്ടും ഉദാഹരണത്തിന് നിങ്ങൾ ശേഖരിച്ചത് ഈ ട്യൂബിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മീഡിയത്തിൽ സിംഗിൾ സെൽ സസ്പെൻഷൻ ഉണ്ട് വീണ്ടും ഇപ്പോഴും നമ്മൾ മീഡിയംനെ കുറിച്ച് സംസാരിച്ചില്ല ഈ സെല്ലുകൾ വളരാൻ ഒരു പ്രത്യേക ഘടനയുള്ള മീഡിയം അഥവാ വ്യത്യസ്ത വളർച്ച ഘടകങ്ങളാൽ അനുബന്ധമായ ഒരു ബഫർഡ് ലായനി ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക അതിനാൽ ഇതാണ് മീഡിയം ചുവന്ന ഡോട്ടുകളിൽ കാണിക്കുന്നതാണ് സിംഗിൾ സെൽ സസ്പെൻഷനുകൾ എന്നാൽ ഇതിനൊക്കെ മുൻപായി കവർ സ്ലിപ്പുകളോ സബ്സ്ട്രേറ്റോ തയ്യാറാക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സ്ട്രേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരുന്നു അതിനാൽ നിങ്ങൾ കവർ സ്ലിപ് തയ്യാറാക്കി അവയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്സ്ട്രേറ്റാൽ പൂശുക അതിനാൽ ഈ സാഹചര്യത്തിൽ ഹിപ്പോകാമ്പൽ ന്യൂറോണിന് ഏറ്റവും പ്രിയങ്കരമായത് പോളി ഡി ലൈസിൻ ആണ് പോളി ഡി ലൈസിനേക്കാൾ മുൻഗണന യുള്ള മറ്റ് സബ്സ്റ്റേറ്റുകളിലേക്ക് ഞാൻ പിന്നീട് വരാം എന്നാൽ ഇപ്പോൾ ഇത് മനസ്സിൽ വെക്കുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കവർ സ്ലിപ് ഉണ്ട് ഇനി നിങ്ങൾ ഇത് മീഡിയമിലേക്ക് ഇടുന്നു അവിടെ അവ വളരും എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു മീഡിയമിലേക്ക് ഇടുന്നതിന് മുൻപ് നിങ്ങൾ ഈ സെൽ സസ്പെൻഷന്റെ ഒരു ചെറിയ ഭാഗം എടുക്കണമെന്ന് ഞാൻ പറയാൻ വിട്ടു പോയ ഒരു കാര്യമുണ്ട് ഇവയെല്ലാം പോളി ഡി ലൈസിൻ കൊണ്ട് പൂശിയ കവർ സ്ലിപ്പുകൾ അല്ലെങ്കിൽ ഗ്ലാസ് ആണ് ഇനി ഇതിലേക്ക് നിങ്ങൾ സസ്പെൻഷൻ എടുക്കുന്നു ആദ്യം ചെറിയ അളവിൽ ആയിരിക്കും എടുക്കുക ശേഷം നിങ്ങൾ ഇതുപോലെ പുരട്ടും അങ്ങനെ ഇവയെ അവിടെ വെക്കും എന്നാൽ ഇതിനായി ചെറിയ തോതിൽ മീഡിയം ആവശ്യമാണ് ശേഷം വീണ്ടും മീഡിയം ചേർക്കാതെ 30 തൊട്ട് 40 മിനിറ്റ് വെക്കുക ശേഷം കൂടുതൽ മീഡിയം ചേർത്ത് 30 തൊട്ട് 40 മിനിറ്റ് വെക്കുക ഇവിടെയാണ് നിങ്ങൾ ഇതിനെ മുക്കി വയ്ക്കുന്നത് എന്നാൽ ഒരുപാട് മുക്കി വെക്കാൻ പാടില്ല എങ്കിൽ മാത്രമേ ഇവർക്ക് അന്തരീക്ഷത്തിൽ നിന്നും എളുപ്പത്തിൽ വായു ലഭിക്കുള്ളൂ കൂടുതൽ മീഡിയം ചേർത്ത് വീണ്ടും തിരികെ co2 ഇൻകുബേറ്ററിൽ വെക്കുക co2 ഇൻകുബേറ്ററിലേക്കും ബഫറിംഗ് സിസ്റ്റത്തിലേക്കും തിരികെ വരും അതിനാൽ ഇതാണ് സോൺ ഇവിടെ എല്ലാം ഡിഫൈൻഡ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ബഫറിംഗ് ചെയ്യുക ഇതിലേക്ക് ഞാൻ പെട്ടെന്ന് തിരിച്ചുവരാം ഇവിടെ നിങ്ങൾ ഇത് തിരികെ co2 ഇൻകുബേറ്ററിൽ ബഫറിംഗിനായി വെക്കുന്നു ഇവിടെയും നിങ്ങൾ ഇൻകുബേറ്ററിൽ വെച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ വളർച്ചയെ നിരീക്ഷിക്കുക ഇതുവരെയായിട്ടും ഞാൻ പറയാഞ്ഞത് കോമ്പോസിഷൻറെ മറ്റു ഭാഗങ്ങളെ കുറിച്ചാണ് അതായത് മീഡിയം പിന്നെ ബഫറിംഗിൻറെ കാര്യത്തിൽ അടിസ്ഥാന ആശയമായ co2 ഇങ്കുബേറ്റർനെ കുറിച്ചും എന്നാൽ ഞാൻ സബ്സ്ട്രേറ്റിനെ കുറിച്ചും അത് സെല്ലിൽ നിന്നും എങ്ങനെയാണ് വേർതിരിച്ചു എടുക്കുന്നത് എന്നും പറഞ്ഞിരുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ 2 കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവയെല്ലാം ഡിഫൈൻഡ് ആണ് ഈ ഭാഗവും ഡിഫൈൻഡ് ആണ് ഇനി നിങ്ങൾ ഈ സെല്ലുകൾ പ്ലേറ്റ് ചെയ്തശേഷം മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുക ഇതാവും നിങ്ങൾ കാണാൻ പോകുന്നത് ഈ സിംഗിൾ സെൽ സസ്പെൻഷനുകൾ പുനരുജ്ജീവിപ്പിക്കുകയും നിങ്ങൾ അവ എത്രത്തോളം അടുത്ത് അല്ലെങ്കിൽ എത്ര ദൂരം പ്ലേറ്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് ഒരു റാൻഡം നെറ്റ്വർക്ക് രൂപപ്പെടുകയും ചെയ്യും അതിനാൽ സാധാരണയായി പ്ലേറ്റ് ചെയ്യുന്നതിന് ചില സെൽ സാന്ദ്രതയുണ്ട് ഇതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാത്ത മറ്റൊരു കാര്യം അതായത് ഇത്തരം ന്യൂറോണുകൾക്ക് സെൽ സാന്ദ്രത സാധാരണരീതിയിൽ ഞാൻ പറയും ഒരു മില്ലിമീറ്റർ സ്ക്വയറിന് 50 മുതൽ 150 സെല്ലുകൾ വരെ ആകാം എന്നാൽ സെൽ ഡെൻസിറ്റി സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾ 50 പിന്തുടരുകയോ 150 പിന്തുടരുകയോ 75 അല്ലെങ്കിൽ 100 ന് ഇടയിൽ ഏതെങ്കിലും പിന്തുടരുകയോ ചെയ്യാം ഞാൻ വ്യക്തിപരമായി എല്ലായിപ്പോഴും ഒരു മില്ലിമീറ്റർ സ്ക്വയറിന് 100 സെല്ലുകൾ എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ സാന്ദ്രത കുറഞ്ഞ കൾച്ചറിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതിനാൽ 50 എടുത്തപ്പോൾ ഞങ്ങൾ ഇത് വളരെ കുറഞ്ഞ സാന്ദ്രത എന്ന് പറഞ്ഞു എന്നാൽ 150 എടുത്തപ്പോൾ സാന്ദ്രത കൂടിയ കൾച്ചർ ആയിരുന്നു ഇതിലും കൂടിയ സാന്ദ്രത എടുക്കാമെന്നും പറഞ്ഞ് വിയോജിപ്പുള്ളവരുണ്ട് ഞാൻ ഹിപ്പോകാമ്പൽ ന്യൂറോണിനൊപ്പം ഒരു ദശകത്തിലധികം പ്രവർത്തിച്ചതിനാൽ അത് ശുപാർശ ചെയ്യില്ല വളരെ ചെറിയ സാന്ദ്രത യിലേക്ക് പോയാൽ സെല്ലുകൾക്കാണ് പ്രശ്നം അതായത് സെല്ലുകൾ കോളനികളായാണ് വളരുന്നത് ഇങ്ങനെ ഇവയെ കോളനികളായ് വളർത്തുമ്പോൾ തൊട്ടടുത്തുള്ള സെല്ലുകളുമായി അവർ സംവദിക്കുന്നു വിവരകൈമാറ്റം അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും ഇതിനെ ശക്തിപ്പെടുത്തുന്നു ഉദാഹരണത്തിന് നിങ്ങൾ അയൽക്കാരുമായി സംസാരിക്കുന്ന പോലെ അതായത് ഒരു കോളനിയിൽ പരസ്പരം സഹായിക്കുന്ന പോലെ സെല്ലുകളും ചെയ്യുന്നു അവിടെയും കോളനികൾ ഉണ്ട് ഇവ പരസ്പരം തുടർച്ചയായി ആശയവിനിമയം നടത്തികൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങൾ അതിനെ വേർതിരിച്ച് ഓരോന്നായി കിലോമീറ്റർ അകലെ വെച്ചാൽ ഈ ഇടപെടലുകൾ നഷ്ടമാവും എന്നാൽ ഈ ഇടപെടലുകളിൽ ചിലത് ഇവയുടെ അതിജീവനത്തിന് ആവശ്യമാണ് അതായത് ഇവ ജീവിക്കുന്നത് ഈ ആശയവിനിമയം ഉള്ളതിനാലാണ് സാന്ദ്രത കുറഞ്ഞ കൾച്ചർനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾക്ക് നേരിടേണ്ടിവരുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണിത് വളരെ സാന്ദ്രത കുറഞ്ഞ കൾച്ചർ വേണ്ടിവരുന്ന സാഹചര്യങ്ങളിലേക്കും നമുക്ക് വരാം അവിടെ പാറ്റേണിംഗിനെ ക്കുറിച്ചും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാം എന്നാൽ വളരെ സാന്ദ്രതയേറിയ കൾച്ചർ ചെയ്യുമ്പോൾ അവിടെ റിസോഴ്സ് ക്രഞ്ച് എന്ന പ്രശ്നം ഉണ്ടാവും ഇത് വളരെയധികം ആളുകളെ ഒരു പരിമിത സ്ഥലത്ത് നിർത്തുന്നത് പോലെയാണ് ഇപ്പോൾ റിസോഴ്സ് നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെങ്കിൽ ചില സെല്ലുകൾ മറ്റു സെല്ലുകളാൽ മൂടപ്പെട്ടതിനാൽ അവയിൽ വായുരഹിതമായ സാഹചര്യം സൃഷ്ടിക്കും ഇങ്ങനെ വരുമ്പോൾ ഇവയിൽ എങ്ങനെയാവും റിസോഴ്സുകൾ എത്തുക എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് കാരണം ഇങ്ങനെയാണ് മെറ്റബോളിസം പ്രവർത്തിക്കുന്നത് അതും വളരെ വേഗത്തിലും എന്നാൽ നിങ്ങൾ എല്ലായ്പ്പോഴും അത്തരമൊരു ഒരു അവസ്ഥയിൽ പ്രവേശിക്കില്ല അതിനാൽ നിങ്ങൾ ഏത് നിരക്കാണ് പിന്തുടരാൻ പോകുന്നതെന്ന് എല്ലായ്പ്പോഴും ഒപ്റ്റിമൈസ് ചെയ്യേണ്ടിവരും ശേഷം ഏതു സാന്ദ്രതയാണോ ഒരിക്കൽ പിന്തുടർന്നത് അതുതന്നെ നിങ്ങൾ വീണ്ടും തുടരേണ്ടിവരുംഇത് മാറ്റാൻ കഴിയില്ല ഇതെങ്ങനെ ചെയ്യുന്നുവെന്നാൽ നിങ്ങൾ ഒരിക്കൽ സെല്ലിനെ വേർതിരിച്ചെടുക്കുന്നു ശേഷം ഹീമോസൈറ്റോമീറ്റർ ഉപയോഗിച്ച് ഹീമോ ചെയ്യുന്നു ഹീമോസൈറ്റോമീറ്റർ സെല്ലുകൾ എത്രത്തോളമുണ്ടെന്ന് അറിയാൻ ആണ് ഇങ്ങനെ ഒരിക്കൽ സെല്ലുകൾ എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കിയാൽ ഇപ്പോൾ ഒരു മില്ലി മീഡിയത്തിൽ എത്ര സെല്ലുകളാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയെങ്കിൽ ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത എണ്ണത്തിൽ സെല്ലുകളെ പൂശാൻ എന്താണ് ചെയ്യുക ഉദാഹരണത്തിനായി നമുക്കൊരു പ്രായോഗിക സാഹചര്യം എടുക്കാം ഒരു മില്ലിക്ക് 10000 സെല്ലുകൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നു ഇനി ഇതെനിക്ക് അപ്ലൈ ചെയ്യണം അതായത് ഒരു കവർ സ്ലിപ്പിൽ അപ്ലൈ ചെയ്യണം എന്നാൽ അതിൻറെ അളവ് എത്രയാണെന്ന് ഈ ഘട്ടത്തിൽ നിശ്ചയിക്കുന്നില്ല ഞാൻ പ്ലേറ്റ് ചെയ്യണം എന്നുമാത്രമേ പറയുന്നുള്ളൂ നമുക്ക് ഇപ്പോൾ ഒരു അക്കം എടുക്കാം ഞാൻ പറയുന്നു എൻറെ പക്കൽ 10 മില്ലിമീറ്റർ by 10 മില്ലിമീറ്റർ കവർ സ്ലിപ്പ് ഉണ്ടെന്ന് അതിനാൽ ഇത് 100 മില്ലിമീറ്റർ ചതുരശ്രയാക്കുന്നു ഇപ്പോൾ ഞാൻ പറയുന്നു 100 മില്ലിമീറ്റർ സ്ക്വയർ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു മില്ലിമീറ്റർ സ്ക്വയറിന് 100 സെല്ലുകൾ എന്ന സാന്ദ്രത വേണമെന്ന് ഇങ്ങനെ ഒരു മില്ലിമീറ്റർ സ്ക്വയറിന് 100 സെല്ലുകൾ ആണെങ്കിൽ എനിക്ക് 100 മില്ലിമീറ്റർ സ്ക്വയറിന് ഒരു മില്ലിമീറ്റർ സ്ക്വയറിന് 100 സെല്ലുകൾ ഗുണനം 100 മില്ലിമീറ്റർ സ്ക്വയർ സെല്ലുകൾ വേണ്ടിവരും ഇവിടെ മില്ലിമീറ്റർ സ്ക്വയറുകൾ തമ്മിൽ റദ്ദാകും അവശേഷിക്കുന്നതാണ് സെല്ലുകൾ അതായത് നിങ്ങൾക്കുള്ളത് 10000 സെല്ലുകളാണ് ഇപ്പോൾ ഒരു മില്ലി ഉണ്ട് ഇത് നിങ്ങൾ കവർ സ്ലിപ്പിൽ തുടക്കം മുതൽ ഒരുപോലെ വ്യാപിക്കുന്ന രീതിയിൽ പടർത്തുക അതിനാൽ സെല്ലുകൾ എല്ലായിടത്തും ഒരേപോലെ വ്യാപിക്കും ഇങ്ങനെ 10 മില്ലി സ്റ്റോക്കിൽ നിന്നും ഓരോ മില്ലി എടുക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ 10 കവർ സ്ലിപ്പുകളിലായി ഇവയെ സ്ഥാപിക്കുക എന്തായിരിക്കും സാന്ദ്രത എന്നതിനെ ആശ്രയിച്ച് വീണ്ടും ശ്രദ്ധയോടെ കണക്കുകൂട്ടുക ഒരു കൾച്ചറിൽ 100 സെല്ലുകൾ മറ്റൊന്നിൽ 200 സെല്ലുകൾ മൂന്നാമത്തെ കൾച്ചറിൽ ഇതിനിടയിൽ എവിടെയെങ്കിലും ഇങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും എന്താവും ലഭിക്കുക നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം ഇതൊക്കെ പറയപ്പെടാത്ത കാര്യങ്ങളാണ് അതിനാൽ സ്വതന്ത്ര ബിരുദ വിദ്യാർത്ഥികളെന്ന നിലയിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം നിങ്ങൾ ഒരു സമപ്രായക്കാരനാണെങ്കിൽ നിങ്ങളുടെ ലാബ് സ്റ്റാഫ് ഇത് പിന്തുടരുന്നുവെന്ന് ഉറപ്പുവരുത്തുക അതായത് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കാരണം ഇത് ലോകത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് എല്ലാവരും ആവർത്തിക്കുന്ന ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ഞാൻ കാണുന്ന പ്രഭാവം ആയിരിക്കില്ല അടുത്ത തവണ കാണുക അതായത് ചെറിയ തെറ്റുകൾ ആവും വലിയ തെറ്റുകൾക്ക് കാരണമാവുക ഹീമോസൈറ്റോമീറ്റർ കണക്കുകൂട്ടലുകൾ ബ്ലഡ് അനാലിസിസ്നായി ഇവയെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഏത് മാനുവൽ എടുത്താലും എത്രമാത്രം ഇടണം എത്ര സെല്ലുകൾ കാണാം എന്നൊക്കെ മനസ്സിലാക്കാനാകും അതിനാൽ ഇപ്പോൾ സെല്ലുകൾ പ്ലേറ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇതിനെയാണ് സെൽ പ്ലേറ്റിംഗ് എന്ന് വിളിക്കുന്നത് മാസ്റ്റർ ചാർട്ട്ലേക്ക് മടങ്ങാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അതായത് സെൽ പ്ലേറ്റിംഗ് റൂൾസ് എത്ര സെല്ലുകളാണ് പ്ലേറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം ഡിഫൈൻ കണ്ടീഷൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ചെറിയ പാരാമീറ്ററുകൾ ഇവയൊക്കെയാണ് ശേഷം ഐസൊലേഷൻ റൂൾസ്നെ കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു ഇനി ഞാൻ ഒരു കാര്യം കൂടി മാസ്റ്റർ സ്ലൈഡിലേക്ക് ചേർക്കുന്നു സെൽ കൌണ്ടും സെൽ പ്ലേറ്റിംഗും എങ്ങനെയാണ് ചെറിയ കാര്യങ്ങൾപോലും ഫലത്തെ സ്വാധീനിക്കുന്നത്തെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും ഇനി വ്യാഖ്യാനങ്ങളിലേക്ക് വരാം ഇപ്പോൾ നിങ്ങൾ സെൽ പ്ലേറ്റിംഗ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ എന്താവും നിരീക്ഷിക്കുക ഇതൊരു ഹിപ്പോകാമ്പൽ കൾച്ചർ ആണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ സെല്ലുകളിൽ ചില പ്രക്രിയകൾ കാണാൻ സാധിക്കും 23 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവയെ ഭംഗിയായി കാണാൻ സാധിക്കും എന്നാൽ ഇവയ്ക്ക് എല്ലായിടത്തും വളരെ റാൻഡം കണക്റ്റിവിറ്റി ആവും ഉണ്ടാവുക ആർക്കാണ് ഏതുമായിട്ടാണ് സിനാപ്സ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല അൽഷിമേഴ്സ്ന്Alzheimer's എതിരെ പരീക്ഷണം നടത്തുന്ന വ്യവസായത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ xyz എന്നീ മരുന്നുകൾ മീഡിയമിലേക്ക് ഇടുന്നു പ്രൈമറി കൾച്ചർ ആണെങ്കിൽ ആദ്യത്തെ മീഡിയം മാറ്റും അതിനുശേഷം ശുപാർശ ചെയ്തത് അനുസരിച്ച് ഓരോ 24 തൊട്ട് 48 മണിക്കൂറുകളിലും പകുതി മീഡിയം മാറ്റണം ഒരു വാട്ടർ ബാത്തിൽ മീഡിയത്തെ ചുടാക്കിയശേഷം പകുതി മീഡിയം മാറ്റാവുന്നതാണ് ഇങ്ങനെ കൾച്ചറിൻറെ സാന്ദ്രതയുടെയുടെ അടിസ്ഥാനത്തിൽ 34 ദിവസത്തിലായി മീഡിയമിൻറെ മുക്കാൽ ഭാഗത്തോളം മാറ്റും ചില ആളുകൾ മീഡിയം മൊത്തമായും മാറ്റും എന്നാൽ ഞാൻ ഇത് ശുപാർശ ചെയ്യില്ല കാരണം സെല്ലുകൾ അവയുടെ നിലനിൽപ്പിനായി നിരവധി ഘടകങ്ങൾ മീഡിയമിലേക്ക് സ്രവിക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾ അതിൽനിന്നുംഎല്ലാം നീക്കം ചെയ്താൽ ഇത് ആദ്യം മുതൽ അവർക്ക് വീണ്ടും ചെയ്യേണ്ടിവരും അതിനാൽ ഓരോ 4 ദിവസം കൂടുമ്പോഴും മീഡിയമിൻറെ മുക്കാൽ ഭാഗം മാറ്റുക എന്നെ ഞാൻ പറയൂ അതിനാൽ ഈ മരുന്നുകൾ നിങ്ങളുടെ പക്കൽ ഉണ്ട് ഇനി ഞാൻ ഇവിടം കൊണ്ട് നിർത്തുന്നു അടുത്ത പ്രഭാഷണത്തിൽ ഈ മരുന്നുകൾ എങ്ങനെയാവും പ്രവർത്തിക്കുന്നതെന്നും കമ്പനി ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നും അടുത്ത തലമുറയിലെ പ്രശ്നങ്ങൾഎന്തായിരിക്കും എന്നതിനെക്കുറിച്ചും സംസാരിക്കാം